എനിക്ക് ഇവിടെ സീനിയർ ആയുളള രണ്ട് പ്രോജക്ട് സ്റ്റാഫുകൾ ഉണ്ട് അഭിരാമിയും സുഹൈബും അവർ ഞങ്ങളോടൊപ്പം ഒരു പ്രോജക്റ്റിനായി പ്രവർത്തിക്കുന്നു അത് എനർജി മോണിറ്ററിംഗുമായി ബന്ധപ്പെട്ടതാണ് ഞാൻ നിങ്ങൾക്കായി ഒരു ബ്ലോക്ക് ഡയഗ്രം വരയ്ക്കാം ജൂൾ ജോട്ടർ ഞങ്ങളുടെ കേസ് സ്റ്റഡിയാണ് ഈ ഊർജ്ജ നിരീക്ഷണ ഹാർഡ്വെയറിനായി വികസിപ്പിച്ച കോഡ് ബേസ് പൂർണ്ണമായി കാണിക്കാൻ ഈ കേസ് പഠനത്തിലൂടെ ഞങ്ങൾ ശ്രമിക്കാം സെൻ ലാബിൽ വികസിപ്പിച്ച സോഫ്റ്റ്വെയറും ഞങ്ങൾ കാണിക്കാം ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചതുപോലെ മിസ് അഭിരാമിയും മിസ്റ്റർ സുഹൈബ് അഹമ്മദും ഈ പ്രോജക്റ്റിൽ പങ്കാളികളായിരുന്നു മാത്രമല്ല ഈ പ്രോജക്റ്റിനെക്കുറിച്ച് വളരെയധികം അഭിനിവേശമുള്ളവരുമാണ് ഈ ഹാർഡ്വെയർ യഥാർത്ഥത്തിൽ എന്താണ് എന്ന് നമുക്ക് നോക്കാം ഹാർഡ്വെയർ ഇപ്പോഴും പ്രോട്ടോടൈപ്പ് ഘട്ടത്തിലാണ് നിങ്ങൾ ഇവിടെ കാണുന്നത് ഒരു സാധാരണ 220 വോൾട്ട് പ്ലഗ് എക്സ്റ്റൻഷൻ ബോക്സാണ് ഈ എക്സ്റ്റൻഷൻ ബോക്സിലേക്ക് നിരവധി ലോഡുകൾ ബന്ധിപ്പിച്ചിരിക്കുന്നു കൂടാതെ Vrms Irms ഔട്ട്പുട്ടും പവർ ഫാക്ടറും ആ പ്ലഗ് പോയിന്റിന്റെ അനുബന്ധ പാരാമീറ്ററുകളാണ് നിങ്ങൾക്ക് വ്യത്യസ്ത ലോഡുകളിൽ പ്രവർത്തിക്കാൻ താല്പര്യം കാണും അതിനാൽ ലോഡിന്റെ ഊർജ്ജ ഉപഭോഗത്തെ പൂർണ്ണമായും ചിത്രീകരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു അടിസ്ഥാനപരമായി നിങ്ങൾക്ക് കുറച്ച് സീരീസ് ഡാറ്റ ലഭിക്കുന്നു കാലക്രമേണ വോൾട്ടേജും കറൻററും എങ്ങനെ വ്യത്യാസപ്പെടുന്നു പവർ ഫാക്ടർ എങ്ങനെ മാറുന്നു എന്നതാണ് നമ്മൾ അറിയേണ്ടത് Vrms Irms എങ്ങനെ മാറുന്നു എന്നത് നോക്കാം അതിനാൽ പടിപടിയായി ആ ഘട്ടത്തിലേക്ക് കടക്കാം അതിനുമുമ്പായി ലാബിൽ വികസിപ്പിച്ചെടുത്ത ഉൽപ്പന്നത്തിന്റെ ഘടകങ്ങളിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോകാം എനിക്ക് ഇവിടെ കാണിക്കാൻ കഴിയുന്നത് 220 ൽ നിന്നുള്ള ഒരു അടിസ്ഥാനമാണ് ഇത് ഒരു സ്റ്റെപ് ഡൌൺ ട്രാൻസ്ഫോർമറാണ് ഇതിന് രണ്ട് ടാപ്പിംഗുകളുണ്ട് PT ഇൻപുട്ട് നൽകുന്നതിനാണ് ഒരു ടാപ്പിംഗ് ഈ ഇലക്ട്രിക്കൽ പാരാമീറ്ററുകൾ അളക്കാൻ ആവശ്യമായ സെൻസറുകൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു PT ആവശ്യമാണ് PT എന്നാൽ പൊട്ടെൻഷ്യൽ ട്രാൻസ്ഫോർമറിനെ സൂചിപ്പിക്കുന്നു CT എന്നാൽ കറൻറ് ട്രാൻസ്ഫോർമറിനെയും സൂചിപ്പിക്കുന്നു അതിനാൽ നിങ്ങൾ ഇവിടെ കാണുന്ന ഈ ട്രാൻസ്ഫോർമറിന് രണ്ട് ടാപ്പിംഗുകളുണ്ട് ഒന്ന് ഊർജ്ജ നിരീക്ഷണത്തിനുള്ള സെൻസർ പോലെ പ്രവർത്തിക്കുന്നു കൂടാതെ ഇലക്ട്രോണിക്സ് പവർ നൽകുന്നതിനു വേണ്ടി ഒരു ട്രാൻസ്ഫോർമറായും ഇത് പ്രവർത്തിക്കുന്നു ഞാൻ പിസിബി അല്പം വിശദമായി കാണിക്കും നിലവിലെ സമയ ശ്രേണി നിങ്ങൾക്ക് ലഭിക്കാനായി എല്ലാ വൈദ്യുതധാരയും അളക്കുന്നതിനുള്ള നിലവിലെ ട്രാൻസ്ഫോർമറാണ് CT വോൾട്ടേജ് സമയ ശ്രേണി നേടുന്നതിന് നിങ്ങൾക്ക് ഇത് ആവശ്യമാണ് ഇനി PT യിലേക്ക് പോകാം മുഴുവൻ ഇലക്ട്രോണിക്സ് സംവിധാനവും ഇവിടെയുണ്ട് ക്യാമറയ്ക്കു മുന്നിലെ ഈ പിസിബി സർക്യൂട്ട് ഞാൻ ഒന്നു കൂടി കാണിച്ചുതരാം ഈ ബോർഡിലുള്ള വ്യത്യസ്ത ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കുറച്ചുകൂടി സൂം ഇൻ ചെയ്തു കാണാം ഇവിടെ കാണുന്ന ഈ ചിപ്പ് മൈക്രോ കൺട്രോളർ എംഎസ്പി 430 ആണ് നമുക്ക് അനുയോജ്യമായ കൺട്രോളർ എംഎസ്പി 430 എഫ് 5438 A ആണ് ഇതിനായി QFP പാക്കേജിംഗ് വിവരങ്ങൾ നോക്കുക QFP ക്വാഡ് ഫ്ലാറ്റ് പാക്കേജാണ് നിങ്ങൾ ഇവിടെ കാണുന്ന ഈ സിസ്റ്റം തീർച്ചയായും റേഡിയോ മൊഡ്യൂളാണ് ഇതിനെ CC 3000 എന്ന് വിളിക്കുന്നു ചില കാരണങ്ങളാൽ ഈ റേഡിയോ മൊഡ്യൂൾ ഞങ്ങൾക്ക് ചില പ്രശ്നങ്ങൾ നൽകി ഈ റേഡിയോ മൊഡ്യൂളിലേക്കുള്ള ഇന്റർഫേസ് ഞങ്ങൾ പ്രത്യേകം ചർച്ച ചെയ്യും ഞാൻ ഇതുപോലെ MCP 430 ൽ എഴുതുകയും CC 3000 ഒരു SPI ബസ് വഴി ബന്ധിപ്പിക്കുകയും ചെയ്യും ഇതാണ് റേഡിയോ മൊഡ്യൂൾ CTയും PTയും ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നു ഇതാണ് എംഎസ്പി പിന്നെ ഈ ബോർഡിൽ നമുക്ക് മറ്റെന്താണ് ഉള്ളത് എന്ന് നോക്കാം ഇത് പവർ ചെയ്യേണ്ടതുണ്ട് അതിനാൽ നിങ്ങൾക്ക് ഒരു റക്റ്റിഫയർ ചിപ്പ് ആവശ്യമാണ് അതിനാൽ ഇത് റക്റ്റിഫയർ ചിപ്പ് ഉചിതമായ രീതിയിൽ സ്റ്റെപ് ഡൌൺ ചെയ്ത ശേഷം എസി ഇൻപുട്ട് ഇവിടെ നൽകും ഇവിടെ ഒരു എൽഡിഒ ഉണ്ട് Ci യും Cout ഇവിടെയുണ്ട് ഈ എനർജി മോണിറ്ററിംഗ് ചിപ്പിന് ചെയ്യാൻ കഴിയുന്ന രണ്ട് ചാനൽ ഇൻപുട്ടുകൾ ഇവയാണ് അതായത് ഇൻപുട്ടുകൾക്ക് എംഎസ്പി 430 ലേക്ക് പോകാൻ കഴിയില്ല കാരണം ഇത് ഒരു കൺട്രോളറാണ് ഇത് ഒരു മൈക്രോകൺട്രോളർ സിസ്റ്റം ഉപയോഗിക്കുന്നു അതിനാൽ ഞാൻ ഇത് യഥാർത്ഥത്തിൽ ADE 7953 ഉപയോഗിച്ച് മാറ്റിസ്ഥാപിക്കാൻ പോകുകയാണ് അത് MSP 430 എന്നിവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് CC 3000 എന്നിവയുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു ഇത് നിങ്ങൾക്ക് റേഡിയോ നൽകുന്നു ഇത് ഒരു SPI മൊഡ്യൂളാണ് അതിനാൽ ഇത് ശരിയായ സ്കീമാറ്റിക് ആണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും മൊഡ്യൂളുകൾ വികസിപ്പിക്കുമ്പോൾ CT PT അനലോഗ് ഉപകരണങ്ങളിൽ നിന്ന് ഒരു എനർജി മോണിറ്ററിംഗ് ചിപ്പിലേക്ക് പോകേണ്ടതുണ്ടെന്നും ഈ ചിപ്പിൽ വീണ്ടും മറ്റൊരു I2C ആവശ്യമാണെന്നും ഞങ്ങൾ മനസ്സിലാക്കണം ഇപ്പോൾ ഈ മൈക്രോകൺട്രോളർ തിരഞ്ഞെടുക്കാൻ നിങ്ങളോട് ആവശ്യപ്പെടുകയാണെങ്കിൽ കുറഞ്ഞത് 1 എസ്പിഐയെയും ഒരു I2C യെയും pp amപിന്തുണയ്ക്കാൻ കഴിയുന്ന എന്തെങ്കിലും നിങ്ങൾ തിരഞ്ഞെടുക്കണം അതിനാൽ എംഎസ്പി 430 ഇതിനുള്ള ഒരു നല്ല ഓപ്ഷനാണ് കാരണം ഇത് ഇവയെ പിന്തുണയ്ക്കുന്നു I2C കഴിവ് ഉള്ള ഈ എനർജി മോണിറ്ററിംഗ് ചിപ്പിന് ഒരു ആന്തരിക കൺട്രോളർ ഉണ്ടായിരിക്കും നിങ്ങൾ ഒരു I2C ബസ്സിലൂടെ ഡാറ്റ ശേഖരിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിരവധി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും ഈ ADE 7953 ന് കാലിബ്രേഷന്റെ ആവശ്യകതകൾക്കായി നിങ്ങൾ ക്രമീകരിക്കേണ്ട നിരവധി രജിസ്റ്ററുകൾ ഉണ്ടാകും അതിനാൽ കോഡിന്റെ ആ ഭാഗം നമ്മൾ കാണണം ചോയിസ് കണ്ട്രോളറായ എംഎസ്പി 430 ന് യഥാർത്ഥത്തിൽ എഡിഇ 7953 ലേക്ക് കമാൻഡുകൾ കൈമാറാനും എനർജി മോണിറ്ററിംഗ് ചിപ്പിനുള്ളിൽ ചില രജിസ്റ്ററുകൾ ക്രമീകരിക്കാനും കഴിയും ഞങ്ങളുടെ വർക്കിംഗ് സർക്യൂട്ട് CC3000 ൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും ഞങ്ങൾ ജനപ്രിയമായ വൈ ഫൈ മൊഡ്യൂളായ ESP8266യെ ഉപയോഗിച്ചു കാരണം ഇത് റേഡിയോ ആശയവിനിമയത്തെ പിന്തുണയ്ക്കുന്നു അതിനാൽ ഈ ഭാഗം നീക്കംചെയ്തു വാസ്തവത്തിൽ അത് അവിടെ തുടരും പക്ഷേ നിങ്ങൾ ഈ ഡാറ്റയെല്ലാം ഉപയോഗിക്കുന്നില്ല എല്ലാ അക്ക്വിസിഷനും പൂർത്തിയാക്കിയ ശേഷം ഇത് ഒരു UART കോഡിലൂടെ ഈ മൊഡ്യൂളിന് നൽകും ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു കൺട്രോളർ എങ്ങനെ തിരഞ്ഞെടുക്കും എന്ന് ചോദിച്ചാൽ എനിക്ക് ഒരു I2C യും ഒരു SPI ഉം വേണമെന്ന് പറയുന്നത് പര്യാപ്തമല്ല പക്ഷേ എനിക്ക് ഒരു UART ഉം ആവശ്യമാണ് ഇനി നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് പിന്നുകളും ആവശ്യമാണ് നിങ്ങൾ ഊർജ്ജ നിരീക്ഷണം നടത്തുകയും ഒരു ആക്റ്റിവേഷൻ നടത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുകയാണെങ്കിൽ ലൈറ്റിംഗ് ലോഡ് അല്ലെങ്കിൽ റിലേകൾ നിയന്ത്രിക്കേണ്ടതാണ് അതിനായി നിങ്ങൾക്ക് തീർച്ചയായും നിരവധി GPIO ലൈനുകളും GPIO പിന്നുകളും ആവശ്യമാണ് ഈ എല്ലാ അനുബന്ധ ഉപകരണങ്ങളെയും പിന്തുണയ്ക്കുന്ന ഒരു കൺട്രോളർ നിങ്ങൾ തിരഞ്ഞെടുക്കണം പെരിഫറൽ പിന്തുണയും വളരെ ജനപ്രിയമായ വൈ ഫൈ മൊഡ്യൂളുകളിലൂടെയുള്ള ആശയവിനിമയത്തിനുള്ള പിന്തുണയും ആവശ്യമാണ് ഇത് സാധാരണ ESP I266 പോലെയാണ് ഇപ്പോൾ ഞാൻ ഇത് ഓഫാക്കി കാരണം ഇത് ടിഐയിൽ നിന്നുള്ള മൊഡ്യൂളാണ് അവ ഈ ചിപ്പിന്റെ പതിപ്പുകൾ മെച്ചപ്പെടുത്തിയിട്ടുണ്ട് എന്നിരുന്നാലും ഞങ്ങൾ ഒന്നും മാറ്റാൻ താൽപ്പര്യപ്പെട്ടില്ല ഇത് ആദ്യത്തെ ഐഒടി വൈ ഫൈ മൊഡ്യൂളുകളിൽ ഒന്നായിരുന്നു ചിപ്പ് വളരെ സ്ഥിരതയില്ലാത്തതിനാൽ അത് പ്രവർത്തിക്കുമെന്ന് ഉറപ്പുവരുത്തുന്നതിന് ഞങ്ങൾ നിരവധി പാച്ചുകൾ പ്രയോഗിക്കേണ്ടതുണ്ട് ഉടൻ അത് ഹാങ്ങ് ആകുന്നു അതിനാൽ ഗേറ്റ്വേയും ഈ യൂണിറ്റും തമ്മിലുള്ള ആശയവിനിമയം പലപ്പോഴും തകരാറാവുന്നു അതിനാൽ ഞങ്ങൾക്ക് മറ്റൊന്നിലേക്ക് മാറേണ്ടിവന്നു തീർച്ചയായും ഇത് വളരെ ജനപ്രിയമായ IoT Wi Fi മൊഡ്യൂളാണ് ഇത് മനസിലാക്കാൻ നമുക്ക് കുറച്ച് സമയം ചിലവഴിക്കാം വാസ്തവത്തിൽ ആശയവിനിമയത്തിനായി ഈ വൈ ഫൈ മൊഡ്യൂൾ ട്യൂൺ ചെയ്യാൻ സുഹൈബ് ധാരാളം സമയം ചെലവഴിച്ചിട്ടുണ്ട് അടിസ്ഥാനപരമായി ഈ വൈഫൈ മൊഡ്യൂൾ വൈ ഫൈ ഡയറക്റ്ററിനെ പിന്തുണയ്ക്കുന്നു അത് വൈ ഫൈയ്ക്കൊപ്പം വൈ ഫൈ ഹോട്ട്സ്പോട്ട് എന്നിവയുമായി യോജിക്കുന്നു അതിനാൽ ഇത് വളരെ ജനപ്രിയമായ ഒന്നാണ് ഇത് ഏകദേശം 200 രൂപയ്ക്ക് ലഭ്യമാണ് അത് ഒരു ചൈനീസ് ഉൽപ്പന്നമാണ് ഷെൻസാനിൽ നിന്നും വളരെ ജനപ്രിയമായ ഒരു മൊഡ്യൂളായി ഞാൻ ഇതിനെ കാണുന്നു അതിനാൽ ഒരാൾക്ക് അത് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ കഴിയും ഇത് ഹ്രസ്വമായി ഹാർഡ്വെയർ ആണ് ഈ മൊഡ്യൂളിന്റെ സോഫ്റ്റ്വെയർ ആർക്കിടെക്ചറിന്റെ ചില നല്ല വശങ്ങളിലേക്ക് നമുക്ക് വേഗത്തിൽ നോക്കാം ഒരു ഐഒടി ഉപയോഗിച്ച് പലതരം അപ്ലിക്കേഷനുകൾക്കായി എങ്ങനെ ഹാർഡ്വെയർ ഉൽപ്പന്നങ്ങൾ വികസിപ്പിച്ചെടുക്കാം എന്നതിനെക്കുറിച്ച് നോക്കാം ഒരു അനുഭവം നൽകുന്നതിന് ഈ സാഹചര്യത്തിൽ ഇത് എനർജി മോണിറ്ററിംഗ് ഹാർഡ്വെയറിന് മാത്രമുള്ളതാണ് നമ്മൾ നിർമിച്ചിരിക്കുന്നത് അതിനാൽ നിങ്ങൾ ഈ എംഎസ്പി 430 നെ പ്രോഗ്രാം ചെയ്യേണ്ടി വരുന്നു അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ജെ ടാഗ് പോർട്ട് ആവശ്യമാകുന്നു ജെ ടാഗിൽ ഞങ്ങൾ IAR വർക്ക് ബെഞ്ച് എന്ന് വിളിക്കുന്ന ഈ ഉപകരണം ഉപയോഗിക്കുന്നു ഇത് വളരെ ശക്തമാണ് എംഎസ്പി 430 നായി കോഡ് വികസിപ്പിക്കാൻ കഴിയുന്ന അന്തരീക്ഷം നിങ്ങൾക്കറിയാം വിഭജിത ടാർഗെറ്റുകൾ ലഭ്യമാണ് കൂടാതെ ഞങ്ങൾ എംഎസ്പി 430 നെ ടാർഗെറ്റ് പ്രോസസറായി തിരഞ്ഞെടുക്കുന്നു അതിനാൽ ഏതൊരു കോഡ് വികസിപ്പിക്കുന്നതിനും ഞങ്ങൾ IAR വർക്ക് ബെഞ്ച് ഉപയോഗിക്കുന്നു ഒടുവിൽ ഞങ്ങൾക്ക് വേണ്ടത് ഒരു ആൻഡ്രോയ്ഡ് അപ്ലിക്കേഷനാണ് അതിലൂടെ ഉപയോക്താക്കൾക്ക് ഒരു ഫോൺ കൈവശം വയ്ക്കാനും അവരുടെ ഡാറ്റ നേടാനും കഴിയും ഡാറ്റ നേടുക മാത്രമല്ല അവരുടെ ഹോം ഉപകരണങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യാം കാരണം ഇവിടെ 2 CT ചാനലുകളുണ്ടെന്നും 2 ലോഡുകൾ കണക്റ്റുചെയ്യാമെന്നും ഞങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഒരു ലോഡ് ഒരു വാഷിംഗ് മെഷീനും മറ്റൊന്ന് മിക്സർ ഗ്രൈൻഡറും മറ്റൊന്ന് റഫ്രിജറേറ്റർ ഫ്രിഡ്ജും ആകാം നിങ്ങൾ ഈ മിക്സർ ജൂൾ ജോട്ടർ ഫ്രിഡ്ജ് സിസ്റ്റത്തെ നിരീക്ഷിക്കാൻ പോകുകയാണ് നിങ്ങൾ അത് കോൺഫിഗർ ചെയ്യണം ലളിതമായ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു എൻഡ് യൂസറായി നിങ്ങൾക്ക് ഇത് കോൺഫിഗർ ചെയ്യാനാകും കാരണം ആൻഡ്രോയിഡ് അപ്ലിക്കേഷൻ തികച്ചും ഫ്രണ്ട്ലി ആണ് ഈ കമാൻഡുകൾ ഈ വൈഫൈ മൊഡ്യൂളിലൂടെ ക്രമീകരിക്കാൻ കഴിയും കണക്റ്റുചെയ്തിരിക്കുന്ന ഉപകരണങ്ങൾ കോൺഫിഗർ ചെയ്യുന്നതിന് വൈഫൈയിൽ വർക്ക് ചെയ്യുന്ന ഒരു സ്മാർട്ട് ഫോൺ വേണ്ടി വരുന്നു അതിനാൽ നിങ്ങളുടെ IoT ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നതിനുള്ള മറ്റൊരു നിബന്ധന കൂടിയാണിത് ഇത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് നമുക്ക് നോക്കാം ആൻഡ്രോയ്ഡ് അപ്ലിക്കേഷൻ ജൂൾ ജോട്ടറിനൊപ്പം പ്രവർത്തിക്കുന്നു അതിൽ ക്ലിക്കുചെയ്യുബോൾ സെൻലാബ്സ് ജൂൾ ജോട്ടർ അപ്ലിക്കേഷൻ തുറന്നു വരുന്നു ഇതിൽ മൂന്ന് കോൺഫിഗറേഷനുകൾ ഉണ്ടെന്ന് നിങ്ങൾക്ക് കാണാം കോൺഫിഗറേഷൻ ചെയ്തതിനു ശേഷം ഡാറ്റ ശേഖരിക്കാൻ തുടങ്ങുന്നു അതിനാൽ ഡാറ്റ വിഷ്വലൈസ് ചെയ്യുക കോൺഫിഗർ ചെയ്യുന്നതിന് നിങ്ങൾക്ക് താൽപ്പര്യമുള്ള വൈഫൈ പേര് വ്യക്തമാക്കാൻ കഴിയും താഴേക്ക് പോകാൻ കണക്റ്റുചെയ്യുക നിങ്ങൾക്ക് വൈഫൈയുടെ പേര് തിരഞ്ഞെടുക്കാനും ISCWlan തിരഞ്ഞെടുക്കാനും അനുവദിക്കാം നിങ്ങൾക്ക് പാസ്വേഡും സാമ്പിളും സജ്ജമാക്കാൻ കഴിയും പാസ്വേഡ് അവിടെയുള്ള ഒന്നിലേക്ക് സജ്ജമാക്കുക തുടർന്ന് നിങ്ങൾക്ക് ഒരു മിനിറ്റിനുള്ളിൽ എത്ര സാമ്പിളുകൾ വേണമെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയും ഓരോ 20 സെക്കൻഡിലും ചിപ്പിനെ നിരീക്ഷിക്കാൻ കഴിയുന്ന എല്ലാ പാരാമീറ്ററുകളുടെയും ഒരു സാമ്പിൾ നിങ്ങൾക്ക് ലഭിക്കും നിങ്ങൾക്ക് 320 സെക്കൻഡ് ലഭിക്കും 1 മിനിറ്റിനുള്ളിൽ നിങ്ങൾക്ക് 3 സാമ്പിളുകൾ ലഭിക്കും Irms Vrms പവർ ഫാക്ടറും പിക്ക് പവറും തുടർന്ന് നിങ്ങൾ കണക്റ്റുചെയ്യാൻ ആഗ്രഹിക്കുന്ന രണ്ട് ഉപകരണങ്ങൾക്ക് പേര് നൽകുക റഫ്രിജറേറ്റർ ഒന്നാം ഉപകരണം ആണ് നിങ്ങൾക്ക് എന്തും കോൺഫിഗർ ചെയ്യാൻ കഴിയും അത് ഒരു മൈക്രോവേവ് ഓവൻ അല്ലെങ്കിൽ ഒരു മിക്സർ അല്ലെങ്കിൽ ടിവി ആകാം അതിനാൽ അതിനാൽ നിങ്ങൾ എല്ലാം ടൈപ്പുചെയ്ത് കോൺഫിഗർ ബട്ടൺ അമർത്തുക ഇത് കോൺഫിഗർ ചെയ്യുകയും സിസ്റ്റത്തിലേക്ക് കണക്റ്റുചെയ്യുകയും ഈ പരാമീറ്ററുകളെല്ലാം ജൂൾ ജോട്ടർ ഹാർഡ്വെയറിലേക്ക് കൈമാറുകയും ചെയ്യുന്നു ഔട്ട്പുട്ട് പവർ പവർ ഫാക്ടർ തുടങ്ങിയവ നേടുന്നതിനായി ജൂൾ ജോട്ടർ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നു നോക്കാം ജൂൾ ജോട്ടറിന്റെയ ഹൃദയം ADE 7953 എന്ന് വിളിക്കുന്ന ഈ ചിപ്പാണ് ഇത് ഒരു സിംഗിൾ ഫേസ് മൾട്ടിഫംഗ്ഷൻ മീറ്ററിംഗ് ഐസിയാണ് ഇതിന് നിരവധി സവിശേഷതകളുണ്ട് ഇത് ഡാറ്റാഷീറ്റിൽ പറഞ്ഞിരിക്കുന്ന വാല്യു ആയി ചേർന്നുനിൽക്കുകയാണെങ്കിൽ അത് നന്നായി പ്രവർത്തിക്കുന്നു ആക്ടീവ് റിയാക്ടിവ് എനർജി മെഷർ മെൻറ്റിൻ 0 1 ശതമാനത്തിൽ താഴെ മാത്രമേ എറർ ഉണ്ടാകുകയുള്ളു നിങ്ങൾ രജിസ്റ്ററുകൾ കാലിബ്രേറ്റ് ചെയ്യണം അതായത് സ്റ്റാൻഡേർഡ് ഉപകരണങ്ങൾ കൊണ്ട് മാത്രമേ നിങ്ങൾ ജൂൾ ജോട്ടർ കാലിബ്രേറ്റ് ചെയ്യേണ്ടത് അതിനുശേഷം മാത്രമേ നിങ്ങൾക്ക് 0 1 ശതമാനം എററിന്റെ ഉറപ്പ് നൽകാൻ കഴിയുകയുളളു ഇൻസ്റ്റൻ്റാനിയസ് മെഷർമെന്റ് ചെയ്യുന്ന സമയത്ത് 0 2 ശതമാനത്തിൽ താഴെയുള്ള എറർ സാധ്യമാണെന്നും ഇത് പറയുന്നു വീണ്ടും ഇത് എല്ലായ്പ്പോഴും അർത്ഥമാക്കുന്നത് നിങ്ങൾ സിസ്റ്റം ബൂട്ട് ചെയ്യുന്ന സമയത്ത് ഐസി ശരിയായി കാലിബ്രേറ്റ് ചെയ്യുക എന്നാണ് നിങ്ങൾ ശരിയായി കാലിബ്രേറ്റ് ചെയ്തുവെന്ന് ഉറപ്പാക്കണം ഇതിന്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും 1 23 കിലോ ഹെർട്സ് ബാൻഡ്വിഡ്ത്ത് ഉണ്ട് കൂടാതെ കറന്റ് അളക്കുന്നതിന് നിങ്ങൾക്ക് റോഗോവ്സ്കി കോയിൽ സെൻസർ എന്നറിയപ്പെടുന്ന വിവിധ തരം സെൻസറുകൾ ഉപയോഗിക്കാം കറൻറ് കൃത്യമായി അളക്കുന്നതിന് ഒരു അധിക ഹാർഡ്വെയർ ആവശ്യമാണെന്ന് ഇത് അർത്ഥമാക്കുന്നു ഈ ഐസിയുടെ രജിസ്റ്റർ സെറ്റ് ചെയ്യുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യാണ് ഈ ഡാറ്റാഷീറ്റിൽ നിങ്ങളെ IRQ സ്റ്റാറ്റ എന്ന രജിസ്റ്റർ നോക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു സ്റ്റാർട്ടപ്പ് സീക്വൻസ് പൂർത്തിയായിക്കഴിഞ്ഞാൽ മൈക്രോകൺട്രോളറിൽ നിന്ന് ആശയവിനിമയം സ്വീകരിക്കാൻ ADE7953 തയ്യാറാക്കുന്നു അതിനായി IRQ സ്റ്റാറ്റയിലെ രജിസ്റ്ററിലെ റിസെറ്റ് ഫ്ലാഗ് സജ്ജമാക്കണം ഒരു ഹാർഡ്വെയർ അല്ലെങ്കിൽ ഒരു സോഫ്ട്വെയർ റീസെറ്റ് സംഭവിക്കുമ്പോൾ ഒരു എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് IRQ പിന്നിനെ പ്രവർത്തനക്ഷമമാകുന്നു അത് ടി സേമ്പിൾ ചെയ്യാർ കഴിയില്ല അതിനാൽ പവർ അപ്പ് നടപടിക്രമത്തിന്റെ അവസാനത്തിൽ ഒരു എക്സ്റ്റേണൽ ഇന്ററപ്റ്റ് എല്ലായ്പ്പോഴും സംഭവിക്കുന്നു അത് ഹാർഡ്വെയർ അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ റീസെറ്റ് ആണ് IRQ സ്റ്റാറ്റ യഥാർത്ഥത്തിൽ പ്രവർത്തനക്ഷമമാക്കിയ പോയിന്റ് കോഡിൽ കാണിച്ചുതരാം അതിനാൽ കോഡിന്റെ ആ ഭാഗം നമുക്ക് നോക്കാം ഇതാണ് IAR വർക്ക്ബെഞ്ച് IDE ആവശ്യമെങ്കിൽ വലുപ്പം വർദ്ധിപ്പിക്കാൻ അനുവദിക്കുക അതുവഴി നിങ്ങൾക്ക് അവ കാണാനാകും കുറച്ചുകൂടി വ്യക്തമായി കാണിക്കാം നിലവിലെ ചാനൽ എയിൽ നിന്നുള്ള ഐആർക്യു സ്റ്റാറ്റ രജിസ്റ്റർ എസ്പിഐ രജിസ്റ്റർ ADE7953 ഐആർക്യു സ്റ്റാറ്റസിനായി 32 ബിറ്റുകൾ റീഡ് ചെയ്തതായി നിങ്ങൾക്ക് കാണാൻ കഴിയും രജിസ്റ്റർ സെറ്റിങ്ങിനായി ഇനി ഇത് ക്രമീകരിക്കണം മറ്റ് പ്രധാന രജിസ്റ്ററുകളെക്കുറിച്ച് ഡാറ്റാഷീറ്റിൽ നമുക്ക് നോക്കാം നിങ്ങൾ ഡാറ്റാഷീറ്റ് വായിച്ചതിനു ശേഷം തിരികെ പോയി സോഴ്സ് കോഡ് നടപ്പിലാക്കുക മറ്റ് രജിസ്റ്റർ ക്രമീകരണങ്ങളിലൊന്നായി നമുക്ക് IRMS A ലേക്ക് പോകാം ഇവിടെ ഐആർഎംഎസ് രജിസ്റ്റർ നിലവിലുള്ള ചാനൽ Aയിലേയും ചാനൽ Bയിലെയും കറണ്ട് 24 ബിറ്റ് അൺസൈന്റ് വാല്യു ആയി തരുന്നു അതായത് ഇത് Irms ന്റെ അളവാണ് റഫർ സമയം 2220 അതിനാൽ ചാനൽ A യിലെ Irms റീഡ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഈ രജിസ്റ്ററിൽ ഉള്ള വാല്യുകൾ ഉപയോഗിക്കേണ്ടതുണ്ട് ഈ രണ്ട് രജിസ്റ്ററുകളും സെക്കൻഡിൽ 6 99 കിലോഹെർട്സ് എന്ന റേറ്റിലാണ് അപ്ഡേറ്റ് ആകുന്നത് നിലവിലെ ചാനൽ എ യും ചാനൽ ബിയും പൂർണ്ണ തോതിലുള്ള ചാനൽ ഇൻപുട്ടുകൾ ഉപയോഗിച്ച് ഈ നിരക്കിൽ അവ അപ്ഡേറ്റുചെയ്യുന്നു IRMSA IRMSB രജിസ്റ്റർ എന്നിവ റീഡ് ചെയ്യുന്നത് ചില നല്ലതാണ് ഇപ്പോൾ നമുക്ക് തിരികെ പോയി സോഴ്സ് കോഡിൽ ഇത് കൃത്യമായി എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം IRMSAയ്ക്കായി എസ്പിഐ 32 ബിറ്റ് റീഡ് ചെയ്തതായി നിങ്ങൾക്ക് കാണാനാകും അതിനാൽ ഡാറ്റാ കറൺഡ് കറൺഡ് എസ്പിഐ രജിസ്റ്റർറീഡ് 32 ADE7953 IRMSA അതിനാൽ നിങ്ങൾ ഇത് ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ IRMSA രജിസ്റ്റർ റീഡ് ചെയ്യുകയാണ് ഇതൊരു 32 ബിറ്റ് രജിസ്റ്ററാണ് ഈ 32 ബിറ്റ് രജിസ്റ്റർ റീഡ് ചെയ്യുന്നു അതുപോലെ തന്നെ നിങ്ങൾക്ക് IRMSBയെക്കുറിച്ചും അറിയാൻ കഴിയും നമുക്ക് പോയി IRQ ENA നോക്കാം ഇത് IRQ എനേബിൾ ആണ് ഈ ഇൻറ്ററപ്റ്റുകളെ സ്ഥിരസ്ഥിതിയായി ഡിസേബിൾ ചെയ്തിരിക്കുകയാണ് ഐആർക്യുഎംഎ രജിസ്റ്ററിലെ എഇഎഫ്എ എഇഒഎഫ് ബിറ്റുകൾ എന്നിവ ഉപയോഗിച്ച് ഇതിനെ എനേബിൾ ചെയ്യാവുന്നതാണ് ഇതൊരു മൾട്ടിബിറ്റ് രജിസ്റ്ററാണ് ഇതിന്റെ ഓരോ ബിറ്റ് പൊസിഷനും ഒരു പേരുണ്ട് ഐആർക്യുഎൻഎ രജിസ്റ്ററിലെ രണ്ട് ബിറ്റ് പൊസിഷനുകളാണ് എഇഎഫ്എയും എഇഒഎഫെയും ആ അഡ്രസ് വിവരങ്ങൾ ചാനൽ എ യിലും ചാനൽ ബിയിലും പരാമർശിച്ചിട്ടുണ്ട് നമുക്ക് തിരികെ പോയി ഇവ നോക്കാം സോഴ്സ് കോഡിലെ രണ്ട് IRQNA B എസ്പിഐ റൈറ്റ് 32 ADE7953 IRQNA റൈറ്റ് IRQNAB എന്നിവ നിങ്ങൾക്ക് കാണാം അതിനാൽ നിങ്ങൾ ഡാറ്റാഷീറ്റ് നോക്കി അതനുസരിച്ച് കോഡ് ഉചിതമായ രീതിയിൽ എഴുതുകയും ആ കോഡ് നിങ്ങൾ ഡീബഗ് ചെയ്യുകയും ചെയ്യണം നിങ്ങൾ ഈ ഇടത് വശത്തെ മുകളിലേക്ക് നോക്കുക അത് ഞങ്ങൾ ഉപയോഗിക്കുന്ന ഡീബഗ്ഗർ ആണ് ഇത് എൻവയോൺമെൻറ് സോഫ്റ്റ്വെയർ ടൂളാണ് എംഎസ്ബി 430 നുള്ള ഐഎആർ എംബഡഡ് വർക്ക്ബെഞ്ച് ഐഡിഇ നിങ്ങളുടെ പ്രശ്നം ഇവിടെ അവസാനിക്കുന്നില്ല കൃത്യമായ മൂല്യങ്ങൾ നേടുന്നതിനും ഡാറ്റാഷീറ്റ് ആവശ്യകതകൾ നിറവേറ്റുന്നതിനും നിങ്ങൾ ഇത് ചെയ്യേണ്ടതുണ്ട് ചില രജിസ്റ്ററുകളുടെ കാലിബ്രേഷനും നിങ്ങൾ ചെയ്യണം നമുക്ക് പോയി ആ പേപ്പർ തുറന്ന് അതിന്റെ ആരംഭ ഭാഗം വായിക്കാം ADE7953 അടിസ്ഥാനമാക്കി സിംഗിൾ ഫേസ് എനർജി മീറ്റർ കാലിബ്രേറ്റ് ചെയ്യാൻ കഴിയുമെന്ന് അതിൽ പറയുന്നു ADE7953 കാലിബ്രേറ്റ് ചെയ്യുന്നതെങ്ങനെയെന്ന് നോക്കാം ഓരോ കോൺസ്റ്റൻ്റുകളും എങ്ങനെ കണ്ടുപിടിക്കാം എന്നതിനെക്കുറിച്ചുള്ള സമവാക്യങ്ങളും ഉദാഹരണങ്ങളും ഉൾപ്പെടെ കാലിബ്രേഷൻ നടപടിക്രമങ്ങളും ഇത് വിശദീകരിക്കുന്നു ഫെയിസ് കറന്റും ന്യൂട്രൽ കറന്റും ഒരേസമയം അളക്കാൻ അനുവദിക്കുന്ന ഉയർന്ന കൃത്യതയുള്ള സിംഗിൾ ഫേസ് മീറ്ററിംഗ് ഐസിയാണ് ADE7953 കറന്റ് വോൾട്ടേജ് ആർഎംഎസ് റീഡിംഗുകൾക്കൊപ്പം സജീവമായ റിയാക്ടീവ് ആക്റ്റീവ് ഊർജ്ജം എന്നിവ ഉൾപ്പെടെ വിവിധ ഊർജ്ജ അളവുകൾ ഇത് നൽകുന്നു ലോഡ് റിവേഴ്സ് പവർ ഡയറക്റ്റ് പവർ ഫാക്ടർ മെഷർമെന്റ് എന്നിവയുൾപ്പെടെ വിവിധതരം ഊർജ്ജ ഗുണനിലവാര സവിശേഷതകളും നൽകുന്നുണ്ട് നമുക്ക് ഇത് നോക്കാം നിങ്ങൾ ഈ പേപ്പർ ബ്രൌസ് ചെയ്യുകയാണെങ്കിൽ ചുവടെ ചെയ്യേണ്ട കാലിബ്രേഷനുകൾ എന്തൊക്കെയാണ് എന്ന് അറിയാൻ കഴിയും ഗെയിൻ കാലിബ്രേഷൻ ഫെയിസ് കാലിബ്രേഷൻ ഓഫ്സെറ്റ് കാലിബ്രേഷൻ എന്നിവയാണ് ഇവിടെ പ്രധാനം ഗെയിൻ കാലിബ്രേഷൻ എല്ലായ്പ്പോഴും ആവശ്യമാണ് സിടി ഉപയോഗിക്കുമ്പോൾ ഫെയിസ് കാലിബ്രേഷൻ ഉപയോഗിക്കുന്നു ഒരു ഷണ്ട് ഉപയോഗിക്കുമ്പോൾ അത് ആവശ്യമില്ല ഒരു വലിയ ഡൈനാമിക് ശ്രേണിയിൽ ഉയർന്ന അക്ക്യുറസിക്കായി ഓഫ്സെറ്റ് കാലിബ്രേഷൻ ഉപയോഗിക്കുന്നു മറ്റ് എല്ലാ മീറ്റർ ഡിസൈനുകൾക്കും ഇത് ആവശ്യമില്ല നിങ്ങൾക്ക് വീടുകളിൽ പ്ലഗ് ചെയ്യാവുന്ന ലോഡുകൾ സ്മാർട്ട് ആക്കുമ്പോൾ ഓഫ്സെറ്റ് കാലിബ്രേഷൻ വളരെ നിർണായകമായിരിക്കില്ല പക്ഷേ ഗെയിനിന്റെയും ഫെയിസിന്റെയും കാലിബ്രേഷൻ തീർച്ചയായും നിങ്ങൾ ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഇപ്പോൾ തിരിച്ചുപോയി സോഴ്സ് കോഡ് നോക്കി സോഴ്സ് കോഡിൽ ചെയ്തിട്ടുള്ള ഈ കാലിബ്രേഷൻ റെസിസ്റ്ററുകൾ നോക്കാം തുടക്കത്തിലുള്ള ഗെയിൻ കാലിബ്രേഷൻ നമുക്ക് നോക്കാം നിങ്ങൾക്ക് ഇവിടെ i കാലിബ്രേഷനും v കാലിബ്രേഷനും i കാലിബ്രേഷന് അവിടെ രജിസ്റ്ററിലേക്ക് പ്രൈം ചെയ്യേണ്ട ഒരു സംഖ്യയുണ്ട് v കാലിബ്രേഷനും ഒരു സംഖ്യയുണ്ട് ഈ രണ്ട് നമ്പറുകളും ഡാറ്റാഷീറ്റിൽ നിന്ന് ലഭ്യമാണ് അവ ഇവിടെ ക്രമീകരിച്ചിരിക്കുന്നു അതിനാൽ ഗെയിൻ കാലിബ്രേഷനും ഫെയിസ് കാലിബ്രേഷനും പ്രധാനമാണ് അവ ചെയ്യേണ്ടതുണ്ട് ഈ ചിപ്പിനെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇതിനെ ESP 8266 EX എന്ന് വിളിക്കുന്നു ഇത് ഞങ്ങളുടെ ജൂൾ ജോട്ടർ ഹാർഡ്വെയറിൽ ഉപയോഗിച്ച Wi Fi മൊഡ്യൂളാണ് നിലവിലുള്ള സിസി 3000 വൈ ഫൈ മൊഡ്യൂളിനെ ബൈപാസ് ചെയ്തതിനു ശേഷം ആണ് ഇത് ഉപയോഗിച്ചത് കാരണം അതിന് മറ്റ് നിരവധി പ്രശ്നങ്ങളും അവിടെ ഉണ്ടായിരുന്നു ഈ ESP 8266ൽ യഥാർത്ഥത്തിൽ പൂർണ്ണമായ TCPIP സ്റ്റാക്ക് ഉണ്ട് അതിൽ എമ്പഡഡ് സ്റ്റാക്ക് പ്രവർത്തിക്കുന്നു കൂടാതെ ഈ ചിപ്പിന്റെ ചില നല്ല സവിശേഷതകൾ എന്തെന്നാൽ ഇത് സ്റ്റാൻഡേർഡ് വൈ ഫൈ പ്രോട്ടോക്കോൾ 802 11നെ പിന്തുണയ്ക്കുന്നു നിരവധി ബിജിഇ വെർഷനുകൾ നിലവിലുണ്ട് അത് പിയർ ടു പിയർ വൈ ഫൈയെ പിന്തുണക്കുന്നു നിങ്ങൾക്ക് ഇതിൽ ഒരു ഗ്രൂപ്പ് ഓണറോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ക്ലയന്റായോ ആകാം ഇതിന് ഇൻഫ്രാസ്ട്രക്ചർ മോഡിൽ പ്രവർത്തിക്കാനാകും ഇത് ഒരു ആക്സസ് പോയിന്റായി ക്രമീകരിക്കാൻ കഴിയും കൂടാതെ ഇതിന് സുരക്ഷാ സവിശേഷതകളും ഉണ്ട് സിസിഎംപി സിബിസി മാക് ടിക്യു സിആർസി എല്ലാം അർത്ഥമാക്കുന്നത് ഇത് ഒരു എമ്പഡഡ് മൊഡ്യൂളാണ് എന്നതാണ് പക്ഷേ ഇത് വളരെ ശക്തമാണ് ഇതിൽ എല്ലാ സുരക്ഷാ സവിശേഷതകളും എമ്പഡഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ഇതിനകം സൂചിപ്പിച്ചതുപോലെ അതിൽ ഒരു ടിസിപി ഐപി സ്റ്റാക്ക് പ്രവർത്തിക്കുന്നുണ്ട് ഇത് വൈ ഫൈ ഡയറക്ട് അക്സസ് പോയിൻറ് പരിശോധിക്കാൻ പിയർ ആയി മാത്രമല്ല ശ്രേണി വിപുലീകരണ ആവശ്യങ്ങൾക്കും ഉപയോഗിക്കാൻ കഴിയും റിപ്പീറ്റർ പ്രവർത്തനത്തിനുള്ളതാണിത് അതിനാൽ ഈ മൊഡ്യൂൾ ഉപയോഗിച്ചാൽ നിരവധി മികച്ച സവിശേഷതകൾ ഞങ്ങൾക്ക് കിട്ടുന്നു ഇനി റിസീവർ സെൻസിറ്റിവിറ്റി നോക്കാം അത് ബി ആണെങ്കിൽ മൈനസ് 91 ഡിബിഎം ജി ആണെങ്കിൽ അത് മൈനസ് 75 ഡിബിഎം എൻ മൈനസ് 72 ഡിബിഎം ആണ് ഇത് 2 5 മുതൽ 3 6 വരെ നല്ല ഓപ്പറേറ്റിംഗ് വോൾട്ടേജ് ശ്രേണിയിൽ പ്രവർത്തിക്കുന്നു അതിനാൽ ഞാൻ സൂചിപ്പിച്ചതുപോലെ ഇതിൽ എംബഡഡ് ടിസിപി ഐപി സ്റ്റാക്കിനുള്ള പിന്തുണയുണ്ട് പ്രധാനമായും ഇത് ഐപിവി 4 നെ പിന്തുണയ്ക്കുന്നു അതിനാൽ ഇത് ഒരുപക്ഷേ ഈ സിസ്റ്റത്തിന്റെ ഒരു പരിമിതിയാണ് IPV 6 സ്റ്റാക്ക് ഉള്ള പുതിയ മൊഡ്യൂളുകളും വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ല ആപ്ലിക്കേഷനുകൾ സാധ്യമാണ് ഹോം സ്മാർട്ട് പ്ലഗുകൾ ലൈറ്റ്സ് മെഷ് നെറ്റ്വർക്ക് ബേബി മോണിറ്ററുകൾ ഐപി ക്യാമറകൾ സെൻസർ നെറ്റ്വർക്കുകൾ തുടങ്ങിയ നിരവധി അപ്ലിക്കേഷനുകൾക്കായി ശരിക്കും ഒരു നല്ല Wi Fi IoT മൊഡ്യൂൾ ലഭ്യമാണ് ഈ ESP 8266 Wi Fi മൊഡ്യൂളുമായി ബന്ധപ്പെട്ട് നിരവധി യൂട്യൂബ് വീഡിയോകൾ ലഭ്യമാണ് എന്നിരുന്നാലും ജൂൾ ജോട്ടർ പ്രോട്ടോടൈപ്പ് ഹാർഡ്വെയറിൽ ഞങ്ങൾ ചെയ്തതിന്റെ ഫ്രയിംവർക്ക് നിങ്ങൾക്ക് ഇടാൻ സാധിക്കും ഞങ്ങൾ ഇപ്പോൾ മറ്റൊരു തരം IDE ഫ്രെയിംവർക്കായ ആർഡി നോ IDE ആണ് ഇപ്പോൾ അവസാനമായി ഉപയോഗിച്ചത് ഞങ്ങൾ മുമ്പ് ചെയ്ത എല്ലാ ADE കോൺഫിഗറേഷനുകളുംഇപ്പോൾനിങ്ങൾക്ക് കാണാൻ കഴിയും കോൺഫിഗറേഷനായി IDE ഉപയോഗിച്ച IAR വർക്ക് ബെഞ്ച് Wi Fi ചിപ്പ് ക്രമീകരിക്കുന്നതിനായി ഞങ്ങൾ arduino IDE ലേക്ക് മാറ്റേണ്ടി വന്നു ഇപ്പോൾ ഞങ്ങൾ ഈ ചിപ്പ് കോൺഫിഗർ ചെയ്യുകയും അതിന്റെ പവർ ഉപയോഗിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന രസകരമായ ഒരു കാര്യമുണ്ട് ജൂൾ ജോട്ടർ നിർമിക്കുന്നതിനായി നിരവധി പാരാമീറ്ററുകൾ കോൺഫിഗർ ചെയ്യേണ്ടതുണ്ട് ഞങ്ങൾക്ക് ഒരു അർഡിനോ അപ്ലിക്കേഷൻ ആവശ്യമാണ് അതിനർത്ഥം നിങ്ങൾ സോഫ്റ്റ് എപി മോഡിലാണ് ESP മൊഡ്യൂൾ സോഫ്റ്റ് എപി മോഡിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കൂടാതെ ഉപയോക്താക്കൾക്ക് ഉപകരണത്തിന്റെ പേരുകൾ സാമ്പിൾ നിരക്ക് കൂടാതെ നിങ്ങൾക്ക് എല്ലാ പാരാമീറ്ററുകളും ടൈപ്പുചെയ്യാനുമാകും കോൺഫിഗറേഷൻ പൂർത്തിയായ ഉടൻ തന്നെ നിങ്ങൾക്ക് ഈ ഇഎസ്പി ഹോട്ട്സ്പോട്ട് സോഫ്റ്റ് എപി മോഡിൽ ഉപയോഗിക്കാൻ കഴിയും നിങ്ങളുടെ ഹോം ഗേറ്റ്വേ ആക്സസ് പോയിന്റിലേക്ക് ജൂൾ ജോട്ടർ മൊഡ്യൂളിനെ ബന്ധിപ്പിക്കാൻ കഴിയും മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് സോഫ്റ്റ് എപി മോഡിനും ക്ലയന്റിനും ഇടയിൽ മാറാൻ കഴിയും രണ്ടിനുമിടയിൽ നീങ്ങാൻ അനുവദിക്കുന്ന ആ കോഡ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇപ്പോൾ സോഫ്റ്റ് എപിക്കും ക്ലയന്റിനും ഇടയിലുള്ള സ്ക്രീൻ ആദ്യം നമുക്ക് വികസിപ്പിക്കാം നിങ്ങളെ വ്യക്തമായി കാണിക്കാൻ Wi Fi ഡോട്ട് സോഫ്റ്റ് എപിക്ക് കഴിയില്ല ആക്സസ് പോയിന്റായി വികസിപ്പിക്കാൻ കഴിയുമെങ്കിൽ ഇത് യഥാർത്ഥത്തിൽ സോഫ്റ്റ് വൈ ഫൈ എപിയായി ക്രമീകരിച്ചിരിക്കുന്നു അന്തിമ ഉപയോക്താക്കളുടെ വീക്ഷണകോണിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഉപയോക്താക്കൾക്ക് അവരുടെ എല്ലാ പാരാമീറ്ററുകളും ഫിൽ ചെയ്യാൻ കഴിയുന്ന മോഡ് ഇതാണ് ക്ലയന്റ് ആവശ്യത്തിനായി ഇത് ക്രമീകരിക്കാനും കഴിയും മാത്രമല്ല ലാബ് വികസനം നടക്കുന്ന മറ്റൊരു രീതിയായിരിക്കാം ആ ഭാഗം ഒരു വൈഫൈ ആക്സസ് പോയിന്റിലേക്ക് കണക്റ്റുചെയ്യുന്നതിനുള്ള രീതിയാണിത് ഇവിടെ നിങ്ങൾക്ക് കാണാനാകുന്നതുപോലെ ഇതിനെ വോയിഡ് വൈ ഫൈ എന്ന് വിളിക്കുന്നു തുടർന്ന് ഇത് നിങ്ങളുടെ വീടുകളിൽ ഉള്ള എസ്എസ്ഐഡിയുമായി ബന്ധിപ്പിക്കുന്നു അതിനാൽ ഇത് വളരെ ശക്തവും രസകരവുമായ ഐഒടി ചിപ്പ് ആണ് ഇത് നിരവധി ആപ്ലിക്കേഷനുകൾക്കുള്ള വൈഫൈ ചിപ്പ് ആണ്